ഹലോ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് I ഇന്നത്തെ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഇത് ലെക്ചർ നമ്പർ 9 ആണ് നിരവധി വേരിയബിളുകളുടെ ഫംഗ്ഷനുകളുടെ ഭാഗിക ഡെറിവേറ്റീവുകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും ഭാഗിക ഡെറിവേറ്റീവ് എന്താണ് മറ്റ് എല്ലാ സ്വതന്ത്ര വേരിയബിളുകളെയും കോൺസ്റ്റന്റ് ആയി നിലനിർത്തിക്കൊണ്ടുതന്നെ ഒരു സ്വതന്ത്ര വേരിയബിളുമായി ബന്ധപ്പെട്ട് നിരവധി വേരിയബിളുകളുടെ ഒരു ഫംഗ്ഷന്റെ ഒരു സാധാരണ ഡെറിവേറ്റീവ് ആണ് ഇത് ഇവിടെ എഴുതിയതുപോലെ ഇത് ഒരു സാധാരണ ഡെറിവേറ്റീവ് ആണ് നമ്മൾ മറ്റ് സ്വതന്ത്ര വേരിയബിളുകളെ കോൺസ്റ്റന്റ് ആയി നിലനിർത്തുകയും ഒരു പ്രത്യേക വേരിയബിളിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഡെറിവേറ്റീവ് എടുക്കുകയും ചെയ്യുമ്പോൾ ആ വേരിയബിളിനെ സംബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് z ഫംഗ്ഷൻ f x y ന് തുല്യമാണ് x y ഡൊമെയ്ൻ R2 ലെ പോയിന്റ് ആണ് കൂടാതെ റിയൽ ലൈൻ z∈R ഉം ആണ് ഒരു പോയിന്റിൽ x0 y0 x മായി ബന്ധപ്പെട്ട് f ന്റെ ഈ ഭാഗിക ഡെറിവേറ്റീവ് ഇത് fxx0y0 എന്നും സൂചിപ്പിക്കുന്നു സാധാരണ ഡെറിവേറ്റീവ് ആകുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഇത് നിർവചിക്കപ്പെടുന്നു x നെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുന്നു ഡെൽറ്റ x പരിമിതപ്പെടുത്തുന്ന ഡെറിവേറ്റീവിന്റെ അടിസ്ഥാന നിർവചനം 0 ലേക്ക് പോകുന്നു തുടർന്ന് x0 ൽ നമ്മൾ ഇവിടെ ഒരു വർദ്ധനവ് വരുത്തും x0 Δx ഇത് x ന്റെ വർദ്ധനവാണ് കാരണം x നെ സംബന്ധിച്ച് നമ്മൾ ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുന്നു ഇവിടെ x0 Δx തുടർന്ന് y0 നമ്മൾ y0 മാറ്റുന്നില്ല ഇത് y0 പോയിന്റിലാണ് y0 അതേപടി നിലനിൽക്കുകയും x0 y0 എന്നതിലെ ഫംഗ്ഷൻ മൂല്യം മൈനസ് ചെയ്യുകയും Δx കൊണ്ട് ഹരിക്കുകയും ചെയ്യും ഈ ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ x നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭാഗിക ഡെറിവേറ്റീവ് ആണെന്ന് നമ്മൾ വിളിക്കുന്നു fxx0 y0 അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു ഈ y0 കോൺസ്റ്റന്റ് ആയി നിലനിർത്തുകയും ഈ സാധാരണ ഡെറിവേറ്റീവുകൾ എടുക്കുകയും ചെയ്യുന്ന ഫംഗ്ഷനിൽ നമുക്ക് ഇത് മനസ്സിലാക്കാനും കഴിയും ഇപ്പോൾ ഇത് x ന്റെ ഫംഗ്ഷനാണ് കാരണം നമ്മൾ ഫംഗ്ഷനിൽ y0 സബ്സ്ടിട്യൂട്ട് ചെയ്യുകയും പിന്നീട് ഇത് ഒരു വേരിയബിൾ x ന്റെ ഫംഗ്ഷനായി മാറുകയും പിന്നീട് x നെ സംബന്ധിച്ച് ഡെറിവേറ്റീവ് എടുക്കുകയും ചെയ്യാം x എന്നത് x 0 ന് തുല്യമാണ് അവിടെ എഴുതിയതുപോലെ ഇത് x നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഡെറിവേറ്റീവ് ആണ് ഇവിടെ പോലെ ഈ ഫംഗ്ഷന്റെ സാധാരണ ഡെറിവേറ്റീവ് ഉപയോഗിച്ചു ഇത് x ന്റെ ഒരു ഫംഗ്ഷനാണ് കാരണം ഈ y യുടെ സ്ഥിരമായ മൂല്യം y y0 എന്നതിന് പകരമാണ് അതുപോലെ പോയിന്റിലെ x0 y0 y യുമായി ബന്ധപ്പെട്ട് f ന്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ നമ്മൾ y നെ സംബന്ധിച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നു ആ അടിസ്ഥാന നിർവചനത്തിൽ ഇപ്പോൾ നമ്മൾ y0 ആർഗ്യുമെന്റുകളിൽ വർദ്ധനവ് വരുത്തും ഇവിടെ y0 Δy f ന്റെ x0 y0 ഫംഗ്ഷൻ മൂല്യം മൈനസ് ചെയ്യുകയും ഇവിടെ കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു വീണ്ടും ഈ ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ ഭാഗിക ഡെറിവേറ്റീവ് നിലവിലുണ്ടെന്നും x0 y0 യിൽ fyx0 y0 എന്ന ചിഹ്നമാണിതെന്നും നമ്മൾ വിളിക്കുന്നു വീണ്ടും ഈ x0 നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഫംഗ്ഷൻ ഒരു വേരിയബിൾ y യുടെ ഫംഗ്ഷനായി ഉണ്ട് തുടർന്ന് y യുമായി ബന്ധപ്പെട്ട് ഈ സാധാരണ ഡെറിവേറ്റീവ് എടുക്കാം പിന്നീട് y0 ന് തുല്യമാണ് പോയിന്റിലെ y യുമായി ബന്ധപ്പെട്ട ഭാഗിക ഡെറിവേറ്റീവ് ഇതായിരിക്കും x0 y0 ഭാഗിക ഡെറിവേറ്റീവിന്റെ ജ്യാമിതീയ വ്യാഖ്യാനത്തിലേക്ക് വരുന്നതിനാൽ ഈ തലം ത്രിമാനമായി നമ്മൾ കണക്കാക്കുന്നു x അക്ഷം y അക്ഷം എന്നിട്ട് നമുക്ക് അവിടെ z അക്ഷവും z f x y ഫംഗ്ഷൻ ഉള്ള ചില ഉപരിതലവുമുണ്ട് ഉപരിതലത്തെ ഈ ഫംഗ്ഷൻ z f x y ആയി പ്രതിനിധീകരിക്കുന്നു ഇവിടെ ഒരു തലം ഉപയോഗിച്ച് ഉപരിതലം മുറിക്കുകയാണെങ്കിൽ y y0 ഇപ്പോൾ ഇത് y y0 തലം ഇത് y അക്ഷം ഇവിടെ നമുക്ക് y അക്ഷത്തിൽ y y0 പോയിന്റുണ്ട് ഇതാണ് തലം ഇവിടെ y യുടെ എല്ലാ മൂല്യങ്ങളും y0 മറ്റൊന്ന് കോൺസ്റ്റന്റ് ആയിരിക്കും ഇവിടെ നമുക്ക് ഈ തലം y y0 ഉണ്ട് നമ്മൾ ഈ ഉപരിതലം മുറിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഈ വിമാനവും ഉപരിതലവും വഴി വിഭജിക്കുന്ന ഒരു വക്രമുണ്ട് ഇപ്പോൾ ഇവിടെ ഈ കർവിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ x0 y0 x നെ സംബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഘട്ടത്തിൽ x0 y0 ഈ കർവിൽ ടാൻജെന്റ് വരയ്ക്കുകയും തുടർന്ന് x അക്ഷത്തിൽ നിന്നുള്ള കോണും ഈ കോണിന്റെ ടാൻജെന്റും x നെ സംബന്ധിച്ചിടത്തോളം f ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നു x0 y0 ഒരു വേരിയബിളിന്റെ ഫങ്ക്ഷന് സമാനമായ ജ്യാമിതീയ വ്യാഖ്യാനമാണ് ഇത് ഒരേയൊരു വ്യത്യാസം നമ്മൾ ഈ y ഫിക്സ് ചെയ്തു എന്നതാണ് y y0 നമ്മൾ ഈ തലം ഈ ഉപരിതലത്തിലോ ഈ തലം ഉപയോഗിച്ചോ മുറിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കർവ് ലഭിക്കും തുടർന്ന് നമുക്ക് വീണ്ടും ഒരു ഡൈമൻഷണൽ കേസിൽ തിരിച്ചെത്തുകയും ജ്യാമിതീയ വ്യാഖ്യാനം ഈ തീറ്റയുടെ ടാൻജെന്റ് തുല്യമാണ് ഈ ഘട്ടത്തിൽ x നോടൊപ്പം f ന്റെ ഭാഗിക ഡെറിവേറ്റീവിന് തുല്യമാണ് പ്രശ്നത്തിലേക്ക് വരുന്നത് x0y പോയിന്റിൽ ഡെൽ എഫ് ഓവർ ഡെൽ എക്സിന്റെ മൂല്യം കണ്ടെത്തുക ആദ്യ തത്ത്വത്തിൽ നിന്നുള്ള f x y ഫംഗ്ഷന്റെ ഒരു പൊതു പോയിന്റാണ് ഇത് ഈ എന്നിവ ഒരു പൊതു പോയിന്റിൽ x y കണക്കുകൂട്ടാൻ നമ്മൾ മുൻ സ്ലൈഡിൽ ചർച്ച ചെയ്ത നിർവചനം ഉപയോഗിക്കും അപ്പോൾ എന്താണ് നിർവചനം ഒരു പോയിന്റിൽ x y നമ്മൾ ഇവിടെ ഒരു പൊതു പോയിന്റ് x y എടുത്തിട്ടുണ്ട് x നെ സംബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവിനെക്കുറിച്ച് സംസാരിക്കുന്നതിനാൽ x ൽ ഒരു വർദ്ധനവ് വരുത്തണമെന്ന് നിർവചനം പറയുന്നു x Δx x y എന്നതിലെ ഫംഗ്ഷൻ മൂല്യം y യിൽ നിന്ന് മൈനസ് ചെയ്യുന്നു ഈ വർദ്ധനവ് Δx കൊണ്ട് ഹരിക്കുക തുടർന്ന് എടുക്കുക ആയ ഈ ഫംഗ്ഷൻ എടുക്കണം ഈ സാഹചര്യത്തിൽ ഇത് Δx y ഇത് y ആയി മാറും x ന് പകരം നമുക്ക് x x ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടാൽ നിങ്ങൾ ഉം സാധാരണമാണ് ഇത് നിങ്ങൾക്ക് പുറത്ത് നിന്ന് എടുക്കാം ഇവിടെ എന്താണ് നിലനിൽക്കുക എന്നിട്ട് 1 കാരണം നിങ്ങൾ ഈ രണ്ട് പദങ്ങളിൽ നിന്ന് നമ്മൾ പൊതുവായി എടുക്കുകയും തുടർന്ന് Δx കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ഈ ലിമിറ്റ് കണക്കാക്കിയാൽ Δx 0 ലേക്ക് പോകുന്നു ഈ e0 ഇത് 1 മൈനസ് 1 00 ഫോമാണ് ഈ ലിമിറ്റ് പോലെയാകുമെന്ന് പറയുന്ന ലാപിതാൾ നിയമം L'Hospital rule പ്രയോഗിക്കാൻ നമ്മൾക്ക് കഴിയും ഈ ന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഡെറിവേറ്റീവ് വെറും 1 ആയിരിക്കും Δx 0 ലേക്ക് പോകുമ്പോൾ ഈ ലിമിറ്റ് 1 ലേക്ക് പോകുന്നു ഇവിടെ ഈ ഡെറിവേറ്റീവ് 1 ഉം ഉം ആയിത്തീരും ഇപ്പോൾ y യുമായി ബന്ധപ്പെട്ട ഭാഗിക ഡെറിവേറ്റീവിനായി അതിനാൽ നമ്മളുടെ നിർവചനം ഇപ്പോൾ മാറും x അതേപടി നിലനിൽക്കുകയും അവ y വർദ്ധിപ്പിക്കുകയും ചെയ്യും f x y കൊണ്ട് ഹരിക്കുന്നു ഇപ്പോൾ ഇത് ഫംഗ്ഷനിൽ പകരം വയ്ക്കുന്നു നമുക്ക് എന്നിവ yex എന്ന ഫംഗ്ഷന് മൈനസ് ചെയ്യുകയും ഈ കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു ഇവിടെ വീണ്ടും പൊതുവായ പദമാണ് ഇവിടെ നമുക്ക് ഉണ്ട് അവശേഷിക്കുന്നത് എന്നതിലേക്ക് പോകുന്നു ഇവിടെ നമുക്ക് ഉണ്ട് അത് റദ്ദാക്കുന്നു തുടർന്ന് നമ്മൾക്ക് ഉണ്ട് Δy ഉം റദ്ദാക്കുകയും നമ്മൾക്ക് മാത്രമേ ലഭിക്കൂ പൊതുവായി എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ആണ് ഇവിടെ നമുക്ക് മൈനസ് ഒരേ പദമാണ് ഇത് അടിസ്ഥാനപരമായി റദ്ദാക്കപ്പെടുന്നു തുടർന്ന് നമുക്ക് ഇവിടെ പദം കൊണ്ട് ഹരിക്കുന്നു ഇത് റദ്ദാക്കപ്പെടും നമുക്ക് ലഭിക്കും ഇവിടെ ഒരു പദം ഇല്ല ഇത് മാത്രമാണ് നമുക്ക് എന്താണ് കാണാൻ കഴിയുക ഇത് ഭാഗിക ഡെറിവേറ്റീവുകളുടെ അടിസ്ഥാന നിർവചനം അല്ലെങ്കിൽ അടിസ്ഥാന നിർവചനം ഉപയോഗിക്കുന്നു X നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡെറിവേറ്റീവുകൾ ലഭിച്ചു മൈനസ് y നെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഇത് നേരിട്ട് കണക്കുകൂട്ടാൻ കഴിയും കാരണം ഈ ഫംഗ്ഷൻ fx y ന് തുല്യവും പോയിന്റിലെ x ന് തുല്യമായ ഭാഗിക ഡെറിവേറ്റീവും ആണ് ഇവിടെ y കോൺസ്റ്റന്റ് ആയി നിലനിർത്തുക സാധാരണ ഡെറിവേറ്റീവ് എടുക്കുകയും ചെയ്യുന്നു y അതേപടി നിലനിൽക്കുകയും ന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും ഇവിടെ നമ്മൾ ഇതിനകം കണ്ട x നെ സംബന്ധിച്ചിടത്തോളം ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ട് ഇവിടെ y യുമായി ബന്ധപ്പെട്ട് ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ x എന്നത് സ്ഥിരാങ്കങ്ങളായി കണക്കാക്കും e പവർ മൈനസ് x കോൺസ്റ്റന്റ് ആയി കണക്കാക്കും തുടർന്ന് y യുമായി ബന്ധപ്പെട്ട് ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇത് 1 ആയിരിക്കും അപ്പോൾ നമുക്ക് ഉണ്ട് വീണ്ടും നമുക്ക് ലഭിക്കുന്നു സാധാരണ നിർവചനം ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് കണക്കുകൂട്ടാം അല്ലെങ്കിൽ മറ്റ് വേരിയബിൾ കോൺസ്റ്റന്റ് ആയി നിലനിർത്തുന്ന ഡെറിവേറ്റീവ് എടുക്കുന്നു അടുത്തത് ഭാഗിക ഡെറിവേറ്റീവുകളും കണ്ടിന്യൂയിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ലിമിറ്റ്കളിലും കണ്ടിന്യൂയിറ്റിയിലും നമ്മൾ ഇതിനകം ചർച്ചചെയ്തു ഒരു ഫംഗ്ഷന് ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അത് രസകരമായ ഒരു ഫലമാണ് ഒരു ഫംഗ്ഷന് x y എന്നിവയുമായി ബന്ധമില്ലാതെയോ അല്ലാതെയോ ഒരു ഘട്ടത്തിൽ ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂയിറ്റിയില്ലാതെ ഈ കേസിൽ ഭാഗിക ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പിനായി നമ്മൾക്ക് കണ്ടിന്യൂയിറ്റി ആവശ്യമില്ല സാധാരണ ഡെറിവേറ്റീവുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കണ്ടിന്യൂയിറ്റി എന്നത് ഡിഫറൻസിബിലിറ്റിക്ക് അനിവാര്യമാണ് എന്നാൽ ഇതുവരെ നമ്മൾ ഡിഫറൻസിബിലിറ്റി എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ സിംഗിൾ വേരിയബിളിന്റെ സിംഗിൾ ഫംഗ്ഷനുകളുടെ കാര്യത്തിൽ ഡെറിവേറ്റീവ് നേടുന്നു നമ്മൾക്ക് ഫംഗ്ഷന്റെ കണ്ടിന്യൂയിറ്റി ആവശ്യമാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ ഒരു ഫംഗ്ഷന് കണ്ടിന്യൂവസ്സായി തന്നെ ഒരു ഘട്ടത്തിൽ x y എന്നിവയുമായി ബന്ധപ്പെട്ട് ഭാഗിക ഡെറിവേറ്റീവുകൾ ഉണ്ടാകാം മറുവശത്ത് കണ്ടിന്യൂവസ്സായ ഫംഗ്ഷന് ഭാഗിക ഡെറിവേറ്റീവുകൾ ഉണ്ടാകണമെന്നില്ല മറ്റൊരു തരത്തിൽ നമുക്ക് ഒരു കണ്ടിന്യൂവസ്സായ ഫംഗ്ഷൻ നടത്താൻ കഴിയും പക്ഷേ ഇതിന് ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ടാകണമെന്നില്ല എന്തും സാധ്യമാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന ഈ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സാണെന്ന് കാണിക്കുന്നു പക്ഷേ അതിന്റെ ഭാഗിക ഡെറിവേറ്റീവുകൾ നിലവിലില്ല ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സാണെന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണമാണിത് പക്ഷേ 00 ൽ ഭാഗിക ഡെറിവേറ്റീവുകൾ രണ്ടും നിലവിലില്ല 00 ലെ കണ്ടിന്യൂയിറ്റി പരിശോധിക്കാം നമ്മൾക്ക് ഈ ഫംഗ്ഷൻ ഇവിടെയുണ്ട് f x y എന്ന ഈ ഫംഗ്ഷന്റെ 00 ൽ ലിമിറ്റ് എടുത്താൽ ഈ ലിമിറ്റ് 0 ആണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ലിമിറ്റ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ മൂല്യം 0 ഇവിടെ 00 നമ്മൾ കണ്ടു ഇവിടെ ഈ ലിമിറ്റ് ഫംഗ്ഷൻ തുടരുന്നതിനേക്കാൾ ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമാണെന്ന് നമ്മൾ കാണിക്കും നമുക്ക് ഉദാഹരണത്തിന് ഡെൽറ്റ എപ്സിലോൺ നിർവചനം ഉപയോഗിക്കാം അല്ലെങ്കിൽ മുമ്പത്തെ പ്രഭാഷണത്തിൽ ചെയ്തതുപോലെ നമുക്ക് നേരിട്ട് ചെയ്യാനും കഴിയും നമുക്ക് എപ്സിലോൺ ഡെൽറ്റയുടെ അടിസ്ഥാന നിർവചനത്തിലൂടെ പോകാം ഇവിടെ f x y മൈനസ് ഈ 0 ഫംഗ്ഷൻ മൂല്യം ഈ വ്യത്യാസത്തിന് തുല്യമാണ് ഇവിടെ ഫംഗ്ഷനിലാണ് sin 1 കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്ന് നമുക്കറിയാം നമുക്ക് ഈ x പ്ലസ് |x y| ഇത് 1 കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇത് ഇതിനെക്കാൾ വലിയ അളവായിരിക്കും ഈ ഫലവും നമുക്ക് അറിയാൻ കഴിയും x y ന്റെ കേവല മൂല്യം തുല്യമായതിനേക്കാൾ കുറവായിരിക്കുമെന്ന ത്രികോണ അസമത്വം | x | | y | ഇപ്പോൾ ഈ x y എന്നതിന് പകരമായി അല്ലെങ്കിൽ നെയ്ബർഹുഡിന്റെ അടിസ്ഥാനത്തിൽ x y ന്റെ ഈ കേവല മൂല്യം കണക്കാക്കാൻ നമ്മൾ ഇവിടെ ഒരു കണക്കുകൂട്ടൽ നടത്തും എന്നിവയുമായുള്ള ബന്ധം നേടുന്നതിനായി നെയ്ബർഹുഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ അസമത്വം സജ്ജമാക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ സമ്പൂർണ്ണ മൂല്യം പരിഗണിക്കുകയാണെങ്കിൽ ഇത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും കാരണം ഇത് ഒരു സ്ക്വയർ പദമാണ് തുടർന്ന് നമുക്ക് ഇവിടെ x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട് ഇത് മൈനസ് 2 മടങ്ങ് കേവലമായിരിക്കും എനിക്ക് വലതുവശത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന y ന്റെ x മൈനസ് കേവല മൂല്യം വലതുവശത്ത് x ന്റെ കേവല മൂല്യവും y യുടെ കേവല മൂല്യവും ആകും ഇപ്പോൾ ഞാൻ ഇരുവശവും ചേർത്താൽ ഈ ഇവിടെ ഇത് ഉം വലതുവശവും ഈ പ്ലസ് 2 തവണ x y എന്നിവയായി മാറും ഇത് വലതുവശത്ത് നമുക്ക് | x | | y | എന്ന് എഴുതാം മുഴുവൻ സ്ക്വയർ ഇടത് വശവും ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കാം ഇത് ആയി മാറും ഇതിന് തുല്യമായതിനേക്കാൾ കുറവാണ് | x | | y | ഇത് മറ്റൊരു വഴിയാണ് ഇത് തുല്യത്തേക്കാൾ വലുതാണ് കാരണം ഇവിടെ അതിനെക്കാൾ വലുതാണ് ഇത് ഇതിനേക്കാൾ വലുതാണ് ഇത് ഇതിന് തുല്യമായതിനേക്കാൾ വലുതാണ് | x | | y | ഇപ്പോൾ നമുക്ക് ഈ പദം ഇവിടെ മാറ്റിസ്ഥാപിക്കാം ഒരു ഇപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായി ബന്ധിപ്പിക്കാവുന്ന ഈ 00 പോയിന്റിന്റെ സമീപസ്ഥലം ഉണ്ട് ഇവിടെ ഈ പദം നമുക്ക് നെയ്ബർഹുഡ് കൾക്ക് ആ അസമത്വം ഉപയോഗിക്കാം തുടർന്ന് നമുക്ക് ഉണ്ട് ഇപ്പോൾ ഈ വ്യത്യാസത്തിന്റെ ലക്ഷ്യം f x y മൈനസ് 0 ന്റെ വ്യത്യാസം നേക്കാൾ കുറവാക്കുക എന്നതാണ് ഇത് ഇപ്പോൾ എന്നതിനേക്കാൾ കുറവാണ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ δ ഉം ഉം തമ്മിലുള്ള ബന്ധം നമ്മൾക്ക് ലഭിക്കും ഇവിടെ നൽകിയിട്ടുള്ളതിനാൽ നമുക്ക് ഇത് കണ്ടെത്താനാകും ഈ വ്യത്യാസം ഇതിനേക്കാൾ കുറവാണെന്ന് നമ്മൾക്ക് ഉണ്ട് നമ്മൾ ഈ നെയ്ബർഹുഡിൽ നിന്ന് x y തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം 00 പോയിന്റിന്റെ ഈ നെയ്ബർഹുഡിൽ നിന്ന് തന്നിരിക്കുന്ന സംഖ്യ ഇവിടെ ഉള്ള ഒരു ഫംഗ്ഷന്റെ ലിമിറ്റാണെന്ന് തെളിയിക്കാനുള്ള ϵ δ സമീപനമാണിത് fxy ഫംഗ്ഷന്റെ ലിമിറ്റ് ഈ 0 ആണെന്ന് നമ്മൾ കണ്ടു ആ സാഹചര്യത്തിൽ നമ്മൾ കണ്ടിന്യൂയിറ്റി തെളിയിച്ചു f x y കണ്ടിന്യൂവസ്സാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു അടുത്തതായി 00 പോയിന്റുകളിൽ ഭാഗിക ഡെറിവേറ്റീവുകളിലേക്ക് നീങ്ങുന്നു നമ്മൾക്ക് ഈ ഫംഗ്ഷൻ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ നിർവചനം ഉപയോഗിക്കാം Δx 0 ലേക്ക് പോകുന്നു x0 y0 00 മുതൽ അതിനാൽ 00 പോയിന്റിൽ ഡെറിവേറ്റീവിനെക്കുറിച്ച് സംസാരിക്കുന്നു ഈ ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ നമ്മൾ ഈ ലിമിറ്റ് എടുക്കുന്നു തുടർന്ന് x നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗിക ഡെറിവേറ്റീവുകളെ നമ്മൾ വിളിക്കുന്നു ഇത് നിലവിലില്ലെങ്കിൽ x നെ സംബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവുകളെയോ ഭാഗിക ഡെറിവേറ്റീവിനെയോ നമ്മൾ വിളിക്കും ഇവിടെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ നിർവചനം അനുസരിച്ച് ഉണ്ട് ഇവിടെ y 0 ആണ് തുടർന്ന് x നെ Δx കൊണ്ട് മാറ്റിസ്ഥാപിക്കും നമ്മൾക്ക് ഈ പദം ഇവിടെയുണ്ട് Δx Δx എന്നിവ റദ്ദാക്കപ്പെടുന്നു തുടർന്ന് നമുക്ക് ഈ ലിമിറ്റ് ലഭിക്കുന്നു Δx 0 ലേക്ക് പോകുന്നു ഈ സാഹചര്യത്തിൽ ഈ ലിമിറ്റ് എന്താണെന്ന് നമുക്കറിയില്ല കാരണം sin ഈ Δx 0 ലേക്ക് പോകുമ്പോൾ കൃത്യമായിരിക്കില്ല ഇതിന്റെ മൂല്യം നമ്മൾക്ക് നിഗമനം ചെയ്യാൻ കഴിയില്ല അടിസ്ഥാനപരമായി ഈ സാഹചര്യത്തിൽ ഈ ലിമിറ്റ് നിലവിലില്ല കാരണം ഇത് ഏത് നമ്പറാണെന്ന് നമ്മൾക്ക് അറിയില്ല ലിമിറ്റ് ഇതിനർത്ഥം x നെ സംബന്ധിച്ച ഭാഗിക ഡെറിവേറ്റീവ് ഈ സാഹചര്യത്തിൽ നിലവിലില്ല വ്യക്തമായും ഈ ലിമിറ്റ് ലഭിക്കുന്നതിന് y യ്ക്ക് സമാനമായ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ y യുമായി ബന്ധപ്പെട്ട് ഭാഗിക ഡെറിവേറ്റീവ് എന്നിവ കണക്കാക്കാം y എന്നതും നിലവിലില്ല മറ്റൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഇപ്പോൾ കാണിക്കും കണ്ടിന്യൂയിറ്റിയല്ല പക്ഷേ അതിന്റെ ഭാഗിക ഡെറിവേറ്റീവുകൾ 00 ൽ നിലവിലുണ്ട് മുമ്പത്തെ പ്രശ്നത്തിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായിരുന്നതായി നമ്മൾ കണ്ടു പക്ഷേ ഭാഗിക ഡെറിവേറ്റീവുകൾ നിലവിലില്ല ഈ സാഹചര്യത്തിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സല്ലെന്ന് നമ്മൾ കാണിക്കും പക്ഷേ അതിന്റെ ഭാഗിക ഡെറിവേറ്റീവുകൾ നിലവിലുണ്ട് ഭാഗിക ഡെറിവേറ്റീവുകൾ രണ്ടും നിലവിലുണ്ട് ഇത് കണ്ടിന്യൂവസ്സായി നമ്മൾ പാത്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ y mx ഇവിടെയും y mx ഇവിടെ x2 ഇവിടെ x2 ഇവിടെയും x2 വരും നമുക്ക് എന്ത് ലഭിക്കും ഇവിടെ നമുക്ക് x ഉണ്ട് തുടർന്ന് y mx നമുക്ക് ഉണ്ട് തുടർന്ന് x എന്ന ലിമിറ്റ് 0 ലേക്ക് പോകുന്നു ഇവിടെ x2 ഇവിടെ x2 ഇവിടെ x x2 നമുക്ക് ഈ ലിമിറ്റ് ആയി ലഭിക്കും ഈ ലിമിറ്റ് നിലവിലില്ല കാരണം ഇത് m നെ ആശ്രയിച്ചിരിക്കുന്നു m ന്റെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി ഈ ലിമിറ്റിന്റെ വ്യത്യസ്ത മൂല്യം നമ്മൾക്ക് ലഭിക്കുന്നു ഈ ലിമിറ്റ് നിലവിലില്ല ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായിരിക്കില്ല ഇപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായില്ലെങ്കിലും ഭാഗിക ഡെറിവേറ്റീവുകളെ x നോടും y നോടും കൂടി കണക്കാക്കാം 00 പോയിന്റുകളിൽ ഉം f 00 മാറുന്ന ഈ അടിസ്ഥാന നിർവചനം ഭാഗിക ഡെറിവേറ്റീവുകളുണ്ട് ഇപ്പോൾ Δx0 ഒരു ആർഗ്യുമെന്റ് 0 y 0 ആണ് ഈ പ്രോഡക്റ്റ് കാരണം ഇത് 0 ആയി മാറും ഇവിടെ ഇത് 0 ആണ് f 00 ഇതും 0 ആണ് Δx ന് മുകളിലുള്ള 0 മൈനസ് 0 ഉം Δx എന്തായാലും ഇത് 0 ഉം ആണ് ഇവിടെ നമുക്ക് ഈ ലിമിറ്റിന്റെ മൂല്യം 0 ആണ് അതായത് x നെ സംബന്ധിച്ച ഭാഗിക ഡെറിവേറ്റീവ് 0 ആണ് ഇപ്പോൾ y യുമായി ബന്ധപ്പെട്ട ഭാഗിക ഡെറിവേറ്റീവ് ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഉം x0y ന് മുകളിലുമാണ് നിർവചനം അനുസരിച്ച് നമ്മൾക്ക് ഈ x0 y0 നിങ്ങൾ 0 ഇടും നമ്മൾ 00 പോയിന്റിൽ ഭാഗിക ഡെറിവേറ്റീവുകളെക്കുറിച്ച് സംസാരിക്കുന്നു വീണ്ടും അതേ വാദം കാരണം ഇവിടെ x 0 ഉം ന്യൂമറേറ്ററിലെ പ്രോഡക്റ്റ് x y ടേമും ഉണ്ട് ഇവിടെ ഇതും 0 ആയി മാറും ഇത് 0 ആകുകയും ഇത് 0 ആകുകയും ചെയ്യും ഇത് 0 ആണ് നമുക്ക് വീണ്ടും ഈ ലിമിറ്റ് 0 ആയി ലഭിച്ചു x നെ സംബന്ധിച്ചും y നെ സംബന്ധിച്ചും ഭാഗിക ഡെറിവേറ്റീവുകൾ നിലനിൽക്കുന്നു രണ്ട് കേസുകളിലും ഭാഗിക ഡെറിവേറ്റീവുകളുടെ മൂല്യം 0 ആണ് ഈ കേസിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായിരിക്കില്ല മറ്റൊരു പ്രശ്നം ഇവിടെ നമ്മൾക്ക് ഉണ്ട് 00 പോയിന്റിൽ fx fy എന്നിവ കണക്കുകൂട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നിർവചനം അനുസരിച്ച് നമുക്ക് ന് തുല്യമാണ് Δx 0 ലേക്ക് പോകുന്നു ഇത് ഭാഗിക ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഇപ്പോൾ f Δx 0 മാറ്റിസ്ഥാപിക്കും y ഇവിടെ 0 സജ്ജമാക്കും അവിടെ 0 ഉം നമുക്ക് ഇത് 2 തവണ ലഭിക്കും y 0 ആകുമ്പോൾ ഇത് ഈ ഫംഗ്ഷൻ 2x ആയി മാറും 2x നമുക്ക് ഇത് ഒരു 2Δx കൊണ്ട് വീണ്ടും Δx കൊണ്ട് വിഭജിച്ച് x 0 ആയി പരിമിതപ്പെടുത്തുന്നു Δx റദ്ദാക്കുകയും ഈ മൂല്യം 0 ആയി ലഭിക്കുകയും ചെയ്യും മൂല്യം 2 ഇവിടെ ലഭിക്കും ഇപ്പോൾ fy00 കണക്കാക്കുമ്പോൾ രണ്ടാമത്തേത് നമ്മൾക്ക് സമാനമായ ഒരു സാഹചര്യം വീണ്ടും ഉണ്ട് 0 Δy ഇത്തവണ Δy നിലനിൽക്കും നമ്മൾക്ക് ഇവിടെ 3Δy മൈനസും ഉണ്ടാകും ഈ f 00 0Δy Δy → 0 ഉം ആണ് ഇവിടെ ഇത് റദ്ദാക്കപ്പെടും നിങ്ങൾക്ക് ഈ മൂല്യം 3 ആയി ലഭിക്കും ഇത് ഇവിടെ 3 ആണ് ഇവിടെ x നെ സംബന്ധിച്ചിടത്തോളം ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ട് ഇവിടെ y യുമായി ബന്ധപ്പെട്ട് f ന്റെ ഭാഗിക ഡെറിവേറ്റീവ് 3 ആണ് ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സാണ് ഭാഗിക ഡെറിവേറ്റീവുകളും നിലവിലുണ്ട് ഉണ്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയും മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നമ്മൾ ഇത് ഇതിനകം ചെയ്തു ഉദാഹരണത്തിന് കണ്ടിന്യൂയിറ്റി കാണുന്നതിന് നമുക്ക് x r cosθ y r sinθ എന്നിവ ഇടാം തുടർന്ന് ഇത് ഇവിടെ ലളിതമായിത്തീരും r2 വരും തുടർന്ന് 2r3 ഉം ഉം ഉം r → 0 ഈ സാഹചര്യത്തിൽ 1 r ന്യൂമറേറ്ററിൽ നിലനിൽക്കും ഇവിടെ ബാക്കി കാലാവധി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇത് 0 ലേക്ക് പോകും ഫംഗ്ഷൻ നിരന്തരവും ഭാഗിക ഡെറിവേറ്റീവുകളും നിലവിലുണ്ട് എന്തും സാധ്യമാണ് ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായ ഭാഗിക ഡെറിവേറ്റീവുകൾ ഇല്ലാതിരുന്നപ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായിരിക്കുമ്പോൾ ഭാഗിക ഡെറിവേറ്റീവ് നിലവിലില്ല ഈ സാഹചര്യത്തിൽ ഫംഗ്ഷനും കണ്ടിന്യൂവസ്സായതും ഭാഗിക ഡെറിവേറ്റീവുകളും നിലവിലുണ്ട് ഭാഗിക ഡെറിവേറ്റീവുകളെ x നോടും y നോടും കണക്കു കൂട്ടുന്നതിനുള്ള ഈ ഉദാഹരണം വീണ്ടും ഈ ഭാഗിക ഡെറിവേറ്റീവുകളുടെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ചും നിങ്ങൾ ചർച്ച ചെയ്യും x y 00 ആയിരിക്കുമ്പോൾ ഇവിടെ fxx y ≠ 00 ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ഈ നല്ല ഫംഗ്ഷൻ ഉണ്ട് പ്രശ്നം 0 ആണ് അവിടെ നമ്മൾ 0 എന്ന് പ്രത്യേകം നിർവചിക്കേണ്ടതുണ്ട് x y ≠ 00 നമുക്ക് ഈ ഫംഗ്ഷൻ ഉണ്ട് ഈ y യെ കോൺസ്റ്റന്റ് ആയി പരിഗണിക്കുന്ന ഭാഗിക ഡെറിവേറ്റീവ് x ഇവിടെ എടുക്കാം x നെ സംബന്ധിച്ച് ഒരു ഭാഗിക ഡെറിവേറ്റീവിനായി ഈ കണക്കു കൂട്ടൽ നടത്തുകയാണെങ്കിൽ നമുക്ക് സാധാരണ കണക്കുകൂട്ടലുകൾ പിന്തുടരാം ഇവിടെ x2 y2 ഉം സ്ക്വയർ റൂട്ടും അതിനാൽ ഈ y യെ കോൺസ്റ്റന്റ് ആയി കണക്കാക്കി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിന്റെ മുഴുവൻ സ്ക്വയറും ആയിരിക്കും ന്യൂമറേറ്ററിൽ ഇവിടെ xy യുടെ x നോടനുബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവ് y ആയിത്തീരും തുടർന്ന് ഈ xy യെ മൈനസ് ചെയ്യുകയും ഇവിടെ ഭാഗിക ഡെറിവേറ്റീവ് 12 ആകുകയും ചെയ്യും ഇവിടെ ഇത് കൂടാതെ x നെ സംബന്ധിച്ച് നമ്മൾ ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുന്നു ഈ 2 x വരും ഈ 2 റദ്ദാക്കപ്പെടും തുടർന്ന് നമുക്ക് ഈ y പദം ൽ ഗുണിക്കാം തുടർന്ന് നമുക്ക് മൈനസ് ഉണ്ട് ഇവിടെ വീണ്ടും ഈ പദം അവിടേക്ക് പോകും കാരണം ഈ ഘടക നിയമം ഇത് ആയി മാറുകയും ഈ x2y മൈനസ് ചെയ്യുകയും പിന്നീട് ഈ ടേം കൊണ്ട് ഹരിക്കുകയും ചെയ്യും ഇത് 3 ബൈ 2 ആകും 1 ഈ പകുതി അതിനെ 32 ആക്കും ഇവിടെ x2 y റദ്ദാക്കപ്പെടും നമുക്ക് y3 ലഭിക്കും കൃത്യമായി ഇവിടെ ഈ പദം അതുപോലെ നമുക്ക് ഈ fy യെ y യുമായി കണക്കാക്കാം ഫംഗ്ഷനുകളുടെ സമമിതി കാരണം y എന്നതിന് പകരം x ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും നമ്മൾക്ക് ലഭിച്ചു ഇവിടെ x നെ സംബന്ധിച്ച് ഈ ഭാഗിക ഡെറിവേറ്റീവ് അടിസ്ഥാന നിർവചനങ്ങളുമായി നമ്മൾ ഇത് കണക്കാക്കേണ്ടതുണ്ട് 00 എന്നതിലെ fx എന്താണെന്ന് നമ്മൾ ഇവിടെ ഉപയോഗിക്കണം പൂജ്യമല്ലാത്ത പോയിന്റിൽ നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് കണക്കുകൂട്ടാൻ കഴിയും 00 ന് നമ്മൾ അടിസ്ഥാന നിർവചനങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് Δx 0 ലേക്ക് പോകുന്നു നമുക്ക് ഉണ്ട് f 00 0 ഉം ഇവിടെ ആർഗ്യുമെൻറ് 0 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ 0 ആയിത്തീരും അതിനാൽ നമുക്ക് ഉണ്ട് ഇത് 0 ആയി മാറും നമ്മൾ ഇവിടെ 0 ഉപയോഗിച്ചു പക്ഷേ ഭാഗിക ഡെറിവേറ്റീവ് 0 ന് ലഭിക്കാൻ ഈ അടിസ്ഥാന നിർവചനം ഉപയോഗിക്കേണ്ടതുണ്ട് ഇവിടെയും നമുക്ക് 0 ലഭിക്കുന്നു അടുത്തതായി നീങ്ങുന്നു കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് ചർച്ചചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഇതിന്റെ ലിമിറ്റ് എന്താണ് എന്ന് നമ്മൾ കാണണം ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് 0 ആണോ അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ ലിമിറ്റ് 0 ആണോ തുടർന്ന് ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സാണ് അല്ലാത്തപക്ഷം അത് കണ്ടിന്യൂവസ്സായിരിക്കില്ല ആ ലിമിറ്റ്കൾ നമ്മൾ ഇവിടെ പരിശോധിക്കണം ഈ സാഹചര്യത്തിൽ നമ്മൾ x r cosθ y r sinθ മാറ്റിസ്ഥാപിക്കുമ്പോൾ നമ്മൾ ഇവിടെ r3 ഉം ഇവിടെ ഉം ലഭിക്കും r ക്യൂബ് റദ്ദാക്കുകയും നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ ലിമിറ്റ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് കണ്ടിന്യൂയിറ്റിയല്ല ഈ ലിമിറ്റ് നിലവിലില്ലാത്തതിനാൽ ഈ f x y കണ്ടിന്യൂവസ്സായിരിക്കില്ല

കണ്ടിന്യൂയിറ്റിയ്ക്കായി ലിമിറ്റ് നിലവിലുണ്ടായിരിക്കണം അത് 00 എന്ന മൂല്യത്തിന് തുല്യമായിരിക്കണം ഈ സാഹചര്യത്തിൽ ലിമിറ്റ് നിലവിലില്ല ഈ ഭാഗിക ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂവസ്സായിരി ക്കില്ല സമയം കാണുക 3118 fy എന്നതിന് സമാനമായ കണക്കുകൂട്ടൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുമോ ഭാഗിക ഡെറിവേറ്റീവുകളായ fx fy എന്നിവ കണ്ടിന്യൂവസ്സായിരിക്കില്ല ഒരു പ്രദേശത്ത് തുടരുന്നതിന് മതിയായ വ്യവസ്ഥയായ മതിയായ ഒരു ഫലം നമ്മൾക്ക് ഉണ്ട് ഒരു മേഖലയിലെ എല്ലായിടത്തും fxy എന്ന ഫംഗ്ഷന് ഭാഗിക ഡെറിവേറ്റീവുകളുണ്ടെങ്കിൽ അത് എന്താണ് പറയുന്നത് ഇവിടെ ഭാഗിക ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പും അതിലുപരിയായി ഈ ഭാഗിക ഡെറിവേറ്റീവുകളെ ചില സംഖ്യ M കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ആ പ്രദേശത്തെ fxx y അതിർത്തിയും fx ഉം fy പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ഈ M x y എന്നിവയിൽ നിന്ന് സ്വതന്ത്രമാണ് f x y എല്ലായിടത്തും തുടരുന്നു കണ്ടിന്യൂയിറ്റിയ്ക്ക് വീണ്ടും മതിയായ ഒരു വ്യവസ്ഥ അതാണ് ഭാഗിക ഡെറിവേറ്റീവുകൾ നിലവിലുണ്ടെങ്കിൽ അവ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സായിരി ക്കും കൂടാതെ x0 y0 എന്നതിൽ ഈ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് ചർച്ചചെയ്യാൻ നമ്മൾക്ക് മതിയായ വ്യവസ്ഥയുണ്ട് ഭാഗിക ഡെറിവേറ്റീവുകളിലൊന്ന് നിലവിലുണ്ടെങ്കിൽ അവ നെയ്ബർഹുഡിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സമീപസ്ഥലത്തെക്കുറിച്ച് സംസാരിക്കണം ഭാഗിക ഡെറിവേറ്റീവുകളിലൊന്ന് നിലവിലുണ്ടെങ്കിൽ അവ ഈ പരിസരത്ത് പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റൊന്ന് ഈ x0 y0 പോയിന്റിൽ നിലനിൽക്കുന്നു x0 y0 പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസ്സാ ണെന്ന് നമുക്ക് പറയാം ഇനിപ്പറയുന്ന പ്രഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ന് നമ്മൾ പഠിച്ചത് ഭാഗിക ഡെറിവേറ്റീവുകളാണ് x നെ സംബന്ധിച്ച് മറ്റ് പല പ്രഭാഷണങ്ങളിലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു ഇവിടെ x നെ സംബന്ധിച്ച വർദ്ധനവ് തുടർന്ന് ഈ ലിമിറ്റ് നിലവിലുണ്ടെങ്കിൽ ഈ ലിമിറ്റ് നമ്മൾ എടുക്കണം x നെ സംബന്ധിച്ച് നമ്മൾ അതിനെ ഭാഗിക ഡെറിവേറ്റീവ് എന്ന് വിളിക്കും ഒപ്പം y യുമായി ബന്ധപ്പെട്ട ഭാഗിക ഡെറിവേറ്റീവിന് സമാനമാണ് ഈ പ്രഭാഷണം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റഫറൻസുകളാണ് ഇവ വളരെയധികം നന്ദി